ഓൺട്രപ്രണയറിൽ യൂണിവേഴ്സിറ്റി സംരംഭക സർവകലാശാല സർവ്വകലാശാലകൾ പരമ്പരാഗതമായി ചില പ്രതേകധർമ്മങ്ങളോടെ ആരംഭിക്കപ്പെട്ടവയാണ് ഒരു സർവകലാശാല സംരംഭക ദൌത്യം ഏറ്റെടുക്കുമ്പോഴോ സംരംഭക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴോ സംരഭക സർവകലാശയായി മാറുന്നു സർവ്വകലാശാലയ്ക്ക് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഒരു ദൌത്യമല്ല അത് സർവകലാശാലയുടെ പരമ്പരാഗത പ്രവർത്തനങ്ങൾ അധ്യാപനവും ഗവേഷണവും ആയി ബന്ധപ്പെട്ടവയാണ് അതിനാൽ സർവ്വകലാശാലകൾ എങ്ങനെ വികാസം പ്രാപിച്ചുവെന്ന് നമ്മൾ നോക്കുമ്പോഴും സർവകലാശാല എന്ന് പറയുമ്പോഴും സർവ്വകലാശാലയുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കോളേജുകളെയുമാണ് നമ്മൾ റഫർ ചെയ്യുക ഒരു സർവ്വകലാശാലയുടെ പ്രവർത്തനങ്ങൾ ഒരു നിശ്ചിത കാലയളവിൽ എങ്ങനെ വികസിച്ചുവെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ അല്ലെങ്കിൽ പരമ്പരാഗത ധർമ്മങ്ങൾ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ പരാമർശിക്കാവുന്ന ചില ധർമ്മങ്ങൾ തിരിച്ചറിയാൻ കഴിയും കൂടാതെ പുതുതായി ഉയർന്നുവരുന്ന ചില ധർമ്മങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പുതിയ പ്രവർത്തനങ്ങൾ ആവിർഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം എന്നാൽ ആദ്യം ഒരു സർവ്വകലാശാലയുടെ ഉദ്ദേശ്യം എന്തായിരുന്നുവെന്ന് മനസിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ഉന്നതവിദ്യാഭാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നത് ഒരു സർവ്വകലാശാലയുടെ പരമ്പരാഗത പ്രവർത്തനം അവർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളിൽ വിശാലമായി ഉൾക്കൊള്ളാൻ കഴിയും സർവകലാശാലകൾ പഠിപ്പിക്കുന്നു അവർ ഗവേഷണം നടത്തുന്നു അറിവ് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ധ്യാപന പ്രവർത്തനം ആരംഭിച്ചത് വാസ്തവത്തിൽ ആളുകൾ സർവ്വകലാശാലകളിൽ ചേരുന്നതിന്റെ കാരണം അറിവ് നേടുക എന്നതാണ് ഗവേഷണത്തെ ഒരു അനുബന്ധ ധർമമായോ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ പുരോഗതി കാരണം ഉണ്ടായതായോ ഒരാൾക്ക് വാദിക്കാം അതിനാൽ ഏതെങ്കിലും സർവകലാശാലയുടെ ചട്ടത്തിലോ സ്ഥാപിത നിയമത്തിലോ സർവ്വകലാശാല സൃഷ്ടിക്കപ്പെട്ടതിന്റെ കാരണം സൂചിപ്പിക്കുന്നതായി കാണാം ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പഠന പുരോഗതിക്കും വിജ്ഞാനവ്യാപനത്തിനുമാണെന്നു അതിന്റെ സ്ഥാപിത ചട്ടങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കാം സർവകലാശാലകളിൽ ഉടനീളം അതിന്റെ സ്ഥാപകചട്ടം ആക്ട് അല്ലെങ്കിൽ സ്ഥാപകപ്രമാണം പഠനപുരോഗതി വിജ്ഞാനവ്യാപനം എനിങ്ങെനെ രണ്ട് പ്രവർത്തനഉദ്യേശങ്ങെളെ സൂചിപ്പിക്കുന്നതായി കാണാം അധ്യാപനപ്രവർത്തനം വിജ്ഞാനാനവ്യാപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം ഒരധ്യാപകൻ അധ്യാപനത്തിലൂടെ ക്ലാസ്സിൽ അറിവ് വ്യാപിപ്പിക്കുകയാണ് വിജ്ഞാന വ്യാപനം എന്നാൽ നിലവിലുള്ള അറിവ് വ്യാപിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം അത് പഠനപുരോഗതിയുടെയും ഒരു ഭാഗമാണ് എന്നാൽ നമുക്ക് ഈ പ്രഭാഷണത്തിന്റെ ഉദ്ദേശ്യത്തിനായി രണ്ടാമത്തെ ധർമ്മത്തെ ഗവേഷണ ധർമ്മവുമായി ബന്ധിപ്പിക്കാം അതിനാൽ ഗവേഷണത്തിൽ ഗവേഷണം അധ്യാപനത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് നിങ്ങൾക്കറിയാം പുതിയ അറിവ് സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമുണ്ട് പുതിയ അറിവ് സൃഷ്ടിക്കാനുള്ള ശ്രമമുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ ഗവേഷണത്തിലൂടെ പഠനപുരോഗതിയുണ്ടാകുന്നു അതിനാൽ നിങ്ങൾ അറിവിന്റെ പുരോഗതിയോ പഠന പുരോഗതിയോ നോക്കുകയാണെങ്കിൽ നമുക്കതിനെ സർവകലാശാലകളുടെ ഗവേഷണ പ്രവർത്തനവുമായി വിശാലമായി ബന്ധിപ്പിക്കാൻ കഴിയും അതിന് ഒരു കാരണമുണ്ട് നമ്മൾ അതിനെയാണ് വിശകലനം ചെയ്യുന്നത് പേറ്റന്റ് നിയമം പരിശോധിച്ചാൽ അതിൽ 20 വർഷത്തേക്ക് ഭരണകൂടം അനുവദിക്കുന്ന എക്സ്ക്ലൂസീവ് അവകാശത്തിലൂടെ കണ്ടുപിടുത്തങ്ങളെ സംരക്ഷിക്കാൻ കഴിയും മുൻകാല കലയ്ക്കും അറിവിനും ഉപരിയായി സാങ്കേതിക പുരോഗതിയും സാങ്കേതിക മുന്നേറ്റവും ഉള്ളവയ്ക്കു മാത്രമേ പേറ്റന്റുകൾ അനുവദിക്കൂ അതിനാൽ ഗവേഷണത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായി നമുക്ക് ഇത് എളുപ്പത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയും ഗവേഷണത്തിൽ സാധാരണയായി അറിവിന്റെ പുരോഗതി ഉണ്ട് ഈ പുരോഗതി പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നതിന്റെ അടയാളങ്ങളാണ് അതുപോലെ നിലവിലുള്ള സാങ്കേതികവിദ്യയിൽ ഒരു പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമേ പേറ്റന്റുകൾ അനുവദിക്കൂ ഇതിനെയാണ് നമ്മൾ പേറ്റന്റിന്റെ ശൈലിയിൽ കണ്ടുപിടുത്തത്തിന്റെ ഘട്ടം എന്ന് വിളിക്കുന്നത് അതിനാൽ സർവകലാശാലയുടെ ഗവേഷണ പ്രവർത്തനം പുതിയ അറിവിന്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇപ്പോൾ വ്യക്തമാവുന്നു പഴയ അറിവിനെ പുതിയ വീക്ഷണകോണിലൂടെ നോക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ ഈ പ്രഭാഷണത്തിന്റെ ഉദ്ദേശ്യത്തിനായി നമുക്ക് പുതിയ അറിവ് സർവ്വകലാശാലകളിൽ സൃഷ്ടിക്കുന്നത് അധ്യാപനത്തിലൂടെയല്ല ഗവേഷണത്തിലൂടെയാണെന്ന് മനസ്സിലാക്കാം അതിനാൽ ഗവേഷണ പാതയ്ക്ക് പുതിയ അറിവ് സൃഷ്ടിക്കാൻ കഴിയും ഈ പുതിയ അറിവിനെ സർവ്വകലാശാലകളുടെയും വിദ്യാലയങ്ങളുടെയും സ്ഥാപനചട്ടങ്ങളിൽ കാണപ്പെടുന്ന പഠന പാതയുടെ പുരോഗതിയുമായി ബന്ധിപ്പിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു സർവകലാശാലയുടെ പ്രാഥമിക പ്രവർത്തനത്തിൽ അധ്യാപനവും ഗവേഷണവും ഉൾപ്പെടുന്നു എന്നും അതിൽ ഗവേഷണത്തിന് നൂതനമായ അറിവ് സൃഷ്ടിക്കാൻ കഴിയും എന്നും ഈ അറിവുപയോഗിച്ചു പുതിയ ഉൽപ്പന്നങ്ങളും പുതിയ സേവനങ്ങളും സൃഷ്ടിക്കാൻ കഴിയും എന്നും നമുക്കറിയാം അതിനാൽ ഗവേഷണത്തിന് നൂതനമായ അറിവ് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് ഈ അറിവ് അപ്രകാശം തന്നെ ശേഷിക്കുന്നെങ്കിൽ അത് പുതിയ ഉൽപന്നങ്ങളിലും സേവനങ്ങളിലും കലാശിക്കപ്പെടുന്നില്ല അതിന് മറ്റെന്തെന്തൊ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാൽ പുതിയ അറിവിനെ അടിസ്ഥാന അറിവായി നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ആ അടിസ്ഥാന അറിവിനെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ആക്കി മാറ്റുന്നതിന് ചില പ്രായോഗിക ഗവേഷണം നടത്തേണ്ടതുണ്ട് ആളുകൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഉത്പന്നങ്ങളായി അറിവ് മാറ്റപ്പെടുമ്പോൾ അതിന് ബൌദ്ധിക സ്വത്തവകാശ സംരക്ഷണം ആവശ്യമായിവരുന്നു അതായത് ബൌദ്ധിക സ്വത്തവകാശനിയമം ഗവേഷണത്തിൽ മുഖ്യമായും ഏർപ്പെട്ടെരിക്കുന്നു ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തുവരുന്ന ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും പരിരക്ഷിക്കുന്നു ഇങ്ങെനെയാണ് ഒരു സർവകലാശാലയുടെ പുതിയ ധർമ്മമായ സംരംഭകധർമ്മം അതിന്റെ പ്രാഥമിക ധർമങ്ങളിലൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനായി സർവ്വകലാശാല സംരഭകപ്രവർത്തനത്തിന് ഒരു പുതിയ പ്രവർത്തനമേഖല സജ്ജീകരിക്കണം അതിലൂടെ സംരഭകപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സർവ്വകലാശാലയ്ക്ക് കഴിയും പുതിയ ഉൽപ്പന്നങ്ങളുടെ സൃഷ്ടിയും സേവനങ്ങളും ഒരു സംരംഭക പ്രവർത്തനമാണ് മാത്രമല്ല ആളുകൾ വീണ്ടും വാങ്ങാനിടയുള്ള പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കുന്നതിന് സഹായിക്കുകയോ അടിത്തറയിടുകയോ ചെയ്യുന്നതും ഒക്കെ സംരംഭക പ്രവർത്തനം തന്നെയാണ് ആളുകൾ വീണ്ടും വാങ്ങാനിടയുള്ള പുതിയ ഉൽപ്പന്നങ്ങളും പുതിയ സേവനങ്ങളും സൃഷ്ടിക്കുന്നതിന് സഹായിക്കുകയോ അടിത്തറയിടുകയോ ചെയ്യുന്നതും ഒക്കെ സംരംഭക പ്രവർത്തനം തന്നെയാണ് പുതുതായി ഉരുത്തിരിഞ്ഞ സംരഭകധർമം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ധർമ്മത്തിൽ സർവ്വകലാശാലകൾ ശ്രദ്ധ കേന്ദ്രികരിക്കണം ഗവേഷണത്തിലൂടെ പുറത്തുവരുന്ന ഉല്പന്നങ്ങളിലൂടെയും സേവനങ്ങളിലൂടെയും പുതിയ അറിവ് നിർമിക്കപ്പെടുന്നു എന്ന വസ്തുതയുമായി നിങ്ങൾക്ക് ഇത് നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയും ഗവേഷണത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ അറിവും അതുപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ബൌദ്ധികസ്വത്തവകാശത്തിലൂടെ മാത്രമേ പരിരക്ഷിക്കാൻ കഴിയുകയുള്ളു സംരംഭക പ്രവർത്തനം ഗവേഷണം എന്ന പ്രാഥമിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുതിയ അറിവ് പരിരക്ഷിക്കാൻ കഴിയുമ്പോൾ മാത്രമേ സംരംഭക പ്രവർത്തനം അർത്ഥവത്താകുകയുള്ളൂ എല്ലാ പുതിയ അറിവുകളും പരിരക്ഷിക്കപ്പെടേണ്ടതാണോ എന്ന ഒരു ആശങ്ക അത് ഉയർത്താം ഇത് തങ്ങളുടെ ലക്ഷ്യങ്ങളെയും ദൌത്യത്തെയും അടിസ്ഥാനമാക്കി സർവ്വകലാശാല തീരുമാനിക്കേണ്ടതാണ് സർവകലാശാലയുടെ ലക്ഷ്യം ഗവേഷണത്തിലൂടെ പുതിയ അറിവ് സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണല്ലോ എന്നാൽ അതിലൂടെ ലാഭം നേടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ സർവകലാശാലയ്ക്ക് അവിടെ നിർമ്മിക്കപ്പെടുന്ന അറിവിന്റെ വ്യാപനം സംരംഭക ധർമത്തിൽ ഉൾപ്പെടാതെ നോക്കാം സർവകലാശാലയുടെ ലക്ഷ്യം സൃഷ്ടിക്കപ്പെട്ട പുതിയ അറിവിനെ ഉത്പന്നങ്ങളായും സേവനങ്ങളായും പരിവർത്തനം ചെയ്യുന്നതോ അതിന് വേണ്ട സൌകര്യമൊരുക്കുന്നതോ ആണെങ്കിൽ അതിനായി ഫണ്ടർമാരെ നിയോഗിക്കാം പൊതുഫണ്ട് ഉപയോഗിച്ച് നടത്തപ്പെട്ട ഗവേഷണമാണെങ്കിൽ പേറ്റന്റ് ഫയൽ ചെയ്യേണ്ടി വന്നേക്കാം അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ സ്ഥാപനം പുതിയ അറിവ് എങ്ങനെ സംരക്ഷിക്കാമെന്നും നോക്കേണ്ടതുണ്ട് ചിലപ്പോൾ പരസ്യമായി ഫണ്ട് ചെയ്യപ്പെട്ട ഒരു ഗവേഷണം നിങ്ങൾ പേറ്റന്റ് ഫയൽ ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാം അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് പുതിയ അറിവ് എങ്ങനെ സംരക്ഷിക്കാമെന്ന് നോക്കേണ്ടതുണ്ട് ഇപ്പോൾ പുതിയ അറിവിന്റെ ഉത്പാദനം ഒരു വാണിജ്യപരമായ ആവശ്യകതയായി മാറുന്നു സാധാരണഗതിയിൽ പുതിയ അറിവിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഉൽപ്പന്നമോ സേവനമോ പരിരക്ഷിക്കപ്പെടാൻ പ്രാപ്തമല്ലെങ്കിൽ മാർക്കറ്റ് അവയിൽ താല്പര്യം കാണിക്കാറില്ല അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഏതൊരു പുതിയ അറിവും ബൌദ്ധിക അവകാശനിയമത്താൽ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു അതുവഴി സർവകലാശാലയുമായി ചേർന്ന് പ്രവർത്തിക്കാനും കൂടുതൽ മുന്നോട്ട് പോകാനും താൽപ്പര്യമുള്ള വ്യവസായങ്ങളുമായി കക്ഷിചേരാനും കഴിയും അതിനാൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഗവേഷണം ഇന്റലക്റ്റച്ചൽ പ്രോപ്പർട്ടി റൈറ്റ് ഐ പി ആർ മുഖാന്തരം സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളിലേക്ക് നയിക്കുന്നു ഐപിആർ പരിരക്ഷ വാണിജ്യവത്ക്കരണത്തിന് സഹായിക്കുന്നു അതിനാൽ ഗവേഷണത്തിൽ നിന്ന് പുറത്തുവരുന്ന ഐപിആറിനും ഒടുവിലെ വാണിജ്യവൽക്കരണത്തിനും ഇടയിൽ അത് പല വിധത്തിൽ സംഭവിക്കുന്നു സർവ്വകലാശാലയ്ക്ക് വ്യവസായത്തിലെ ആരെങ്കിലുമായി പങ്കാളിത്തം ഉണ്ടാക്കാം സാങ്കേതിക വിദ്യയെ സൃഷ്ടിക്കുകയും വാണിജ്യവത്കരിക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയെ ഇൻകുബേറ്റ് ചെയ്യാൻ സർവ്വകലാശാലയ്ക്ക് കഴിയും അത് പലവിധത്തിലാകാം അതിനാൽ ഐപിആറിനും ഗവേഷണത്തിന്റെ വാണിജ്യവത്കരണത്തിനുമിടയിൽ നമുക്ക് ഐ പി കേന്ദ്രം അല്ലെങ്കിൽ ഐപി ആർ കേന്ദ്രം ഉണ്ട് അതിനാൽ ഐ പി കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഐ പി ആർ കേന്ദ്രം ഒരു നോഡൽ പോയിന്റ് ആണ് അത് ഗവേഷണത്തിലൂടെ ഉരുത്തിരിയുന്ന ബൌദ്ധിക അവകാശത്തിലൂടെ പരിരക്ഷിക്കപെടുന്ന പുതിയ അറിവിനെ സ്വന്തമാക്കാനും ഗവേഷണത്തിലൂടെ ഉരുവാകുന്ന ഉൽപന്നങ്ങളുടെ വാണിജ്യവൽക്കരണത്തിനും സഹായകമാകുന്നു അതിനാൽ ഗവേഷണത്തിനും വാണിജ്യവൽക്കരണത്തിനുമിടയിൽ നിങ്ങൾക്ക് ഐപിആർ വഴി സംരക്ഷണം വിഭാവന ചെയ്യാൻ കഴിയും അതിനായി സർവകലാശാലയ്ക്ക് ഒരു ഐപി കേന്ദ്രമോ ഐപിആർ കേന്ദ്രമോ ഉണ്ടായിരിക്കണം അതിനാൽ വാണിജ്യവത്ക്കരണം നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രവർത്തനാനുമതിയോടെയുള്ള സാങ്കേതികവിദ്യ കൈമാറ്റം വഴി സംഭവിക്കാം യൂണിവേഴ്സിറ്റി ഒരു സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നു കൂടാതെ വ്യവസായ മേഖലയിലെ അംഗങ്ങൾക്ക് അതിന്റെ പ്രവർത്തനാനുമതി നൽകുന്നു വാണിജ്യവത്ക്കരണം വിജ്ഞാന വ്യാപനത്തിലൂടെയോ പ്രചാരണത്തിലൂടെയോ സംഭവിക്കാം സർവ്വകലാശാലകൾ അറിവ് വികസിപ്പിക്കുകയും അത് കൈമാറ്റം ചെയ്യുകയും വേണം അടിസ്ഥാന ഗവേഷണം ഉൾക്കൊള്ളുന്ന കേസുകളിൽ ഇത് പ്രധാനമായും സംഭവിക്കാം അറിവ് പ്രചരിപ്പിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് അതുപയോഗിച്ച് ഉത്പ്പന്നങ്ങൾ നിർമിക്കാനും പ്രായോഗിക ഗവേഷണം നടത്താനും വിവിധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉയർത്തികൊണ്ടുവരാനും കഴിയണം എന്നതാണ് വാണിജ്യവത്കരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് അറിവിന്റെ വ്യാപനം ഒരർത്ഥത്തിൽ വാണിജ്യവത്കരണവുമാണ് മൂന്നാമതായി അത് സ്റ്റാർട്ടപ്പുകൾ ഇൻക്യൂബേറ്റ് ചെയ്യുന്നതിലൂടെ ആകാം ചില സാഹചര്യങ്ങളിൽ സർവകലാശാല സാങ്കേതികവിദ്യക്ക് ലൈസൻസ് നൽകാനോ ലൈസൻസ് ചെയ്യാനോ ആഗ്രഹിക്കില്ല അത്തരം സാഹചര്യങ്ങളിൽ സർവകലാശാലകളിൽ തന്നെ സ്റ്റാർട്ടപ്പ് തുടങ്ങി സാങ്കേതികവിദ്യ വിപണിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർ ഉണ്ടെങ്കിൽ ആ സ്റ്റാർട്ടപ്പുകളെ ഇൻകുബേറ്റ് ചെയ്യുന്നതിലൂടെ വാണിജ്യവൽക്കരണം സംഭവിക്കുന്നു ഇപ്പോൾ സാങ്കേതികവിദ്യയുടെ കൈമാറ്റം എങ്ങനെയാണ് സാങ്കേതികവിദ്യയുടെ കൈമാറ്റം വിശാലമായത് കൊണ്ട് ഗവേഷണത്തിന്റെ വാണിജ്യവൽക്കരണം സാങ്കേതികവിദ്യയുടെ കൈമാറ്റത്തിലൂടെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കണം അതിനാൽ നമ്മൾ ഈ വാക്കുകൾ ഇടകലർത്തി ഉപയോഗിക്കുന്നു ഗവേഷണം വാണിജ്യവത്ക്കരിക്കേണ്ടതുണ്ടെങ്കിൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ മാർക്കറ്റിലേക്കോ വ്യവസായമേഖലയിലേക്കോ പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമ്മൾ അതിനെ സാങ്കേതികവിദ്യയുടെ കൈമാറ്റം അല്ലെങ്കിൽ ഗവേഷണത്തിന്റെ വാണിജ്യവൽക്കരണം എന്ന് വിളിക്കുന്നു വാസ്തവത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഐപി സെന്ററുകളെ ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസുകൾ അല്ലെങ്കിൽ ടെക്നോളജി ലൈസൻസിംഗ് ഓഫീസുകൾ എന്നാണ് വിളിക്കുന്നത് അതിനാൽ ഈ വാക്കുകൾ പരസ്പരം മാറിമാറി ഉപയോഗിക്കുന്നു പക്ഷേ നമുക്ക് മനസിലാക്കേണ്ടത് സാങ്കേതികവിദ്യയുടെ കൈമാറ്റം അല്ലെങ്കിൽ ഗവേഷണ വാണിജ്യവത്ക്കരണം എങ്ങനെയാണ് ഒരു സർവ്വകലാശാലയെ സഹായിക്കുന്നത് എന്നതാണ് സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യുന്നതിന്റെയും ഗവേഷണം വാണിജ്യവത്കരിക്കുന്നതിന്റെയും ഉദ്ദേശ്യം പ്രഥമമായും ഗവേഷണം വാണിജ്യവത്കരിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ ഗവേഷണത്തിന് പ്രചോദനമാകും എന്നതാണ് കാരണം ഒരിക്കൽ ഗവേഷണത്തിലൂടെ പുറത്തുവരുന്ന വസ്തുക്കളും ഉത്ഭവിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മൂല്യവത്തായതും വാണിജ്യശേഷിയുള്ളതും വിപണി ഉപഭോഗത്തിന് ഉപയുക്തമാക്കാവുന്നതുമാണെങ്കിൽ അതിന് ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും ഇതിലൂടെ കൂടുതൽ ഗവേഷണത്തിന് ധനസഹായം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വരുമാനം നേടാൻ കഴിയും അതിനാൽ ഇത് മറ്റൊരു മാതൃകയാണ് അമേരിക്കയിലെ ചില സർവകലാശാലകളിൽ ഇത് ഫലപ്രദമായി നമ്മൾ കണ്ടതാണ് ഗവേഷണത്തെ വാണിജ്യവത്ക്കരിക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം കൂടുതൽ ഗവേഷണത്തിനായി സർവകലാശാലയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഇടയാകുന്നു സർവകലാശാലയിൽ ഗവേഷണത്തിനുള്ള സംവിധാനം സജ്ജമാക്കാനും ഇത് സഹായിക്കുന്നു ഉദാഹരണത്തിന് ഒരു സർവകലാശാല സാങ്കേതികവിദ്യയുടെ കൈമാറ്റം ഗൌരവമായി എടുക്കുകയാണെങ്കിൽ പ്രതിഭാനിർണയം നടത്താനും നിലനിർത്താനും കൂടുതൽ സഹായകമായി തീരുന്നുവെന്നു സൂചിപ്പിക്കുന്ന പഠനങ്ങളുണ്ട് എന്തൊക്കെയായാലും സർവകലാശാലയിലെ ആളുകളാണ് ഈ ഗവേഷണം നടത്താൻ പോകുന്നത് അതിനാൽ നിങ്ങൾക്ക് നല്ല പ്രതിഭകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരവും ഇത് സജ്ജമാക്കുന്നു ഒപ്പം സർവ്വകലാശാലയിൽ ചേർന്ന ആളുകൾക്ക് ഗവേഷണത്തിലും കരിയർ പുരോഗതി ഉണ്ടാകും സാങ്കേതികവിദ്യയുടെ കൈമാറ്റവും പ്രധാനമാണ് കാരണം ഗവേഷണം മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെ ഒരു സാമൂഹ്യക്ഷേമ ലക്ഷ്യവും സർവകലാശാലക്ക് നിറവേറ്റാൻ കഴിയുന്നുണ്ട് അല്ലാത്തപക്ഷം ഗവേഷണത്തിന്റെ ഫലം സർവകലാശാലയ്ക്കുള്ളിൽ തന്നെ ഒതുങ്ങി പോകും അതായത് ഇത് സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു മാത്രമല്ല വിഭവങ്ങളുടെ വിതരണവും സാമൂഹിക ക്ഷേമവും സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനും സഹായകമാകുന്നു അതിനാൽ സാങ്കേതികവിദ്യ കൈമാറുന്നതിനുമുമ്പ് സർവ്വകലാശാലകൾ ആദ്യം അവ സൃഷ്ടിക്കണം എന്നതാണ് ഒരു മുൻവ്യവസ്ഥ അത് മുൻവ്യവസ്ഥയാണ് അതിനാൽ ഗവേഷണത്തെ പരിരക്ഷിക്കുന്നതിനായി നമ്മൾ ഐപി അല്ലെങ്കിൽ ഇന്റലെക്ടച്ചൽ പ്രോപ്പർട്ടി റൈറ്സ് ഐപിആർ ഉപയോഗിക്കുമ്പോഴെല്ലാം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് അനുമാനിക്കുന്നു അത് ഗവേഷണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾക്കും പ്രക്രിയകൾക്കും കാരണമാകും അതിനാൽ മൂല്യവത്തായ ഗവേഷണമുണ്ടെന്നും മൂല്യവത്തായ ഗവേഷണമുണ്ടെങ്കിൽ മാത്രമേ ബൌദ്ധിക സ്വത്തവകാശ നിയമത്താൽ സംരക്ഷിക്കാനാകു എന്നും ഒരു ധാരണയുണ്ട് ഇപ്പോൾ വിലയേറിയ ഗവേഷണങ്ങൾ സാധ്യമാകുന്നതിന് ശാസ്ത്രിയ ഗവേഷണത്തിന് ധനസഹായം ആവശ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഗവേഷണത്തിനുള്ള പ്രധാന ധനസഹായം സർക്കാർ ധനസഹായമാണ് യുണൈറ്റഡ് സ്റ്റേസിന് ഇപ്പോൾ നാഷണൽ സയൻസ് ഫൌണ്ടേഷൻ അഥവാ എൻ എസ് എഫ് ഉണ്ട് അത് ശാസ്ത്രസാങ്കേതിക വിദ്യക്കുള്ള ധനസഹായം നൽകുന്നു എന്നാൽ വൈദ്യശാസ്ത്രഗവേഷണത്തിന് ഇത് ധനസഹായം നൽകുന്നില്ല അപ്രകാരം ചെയ്യുന്നതിന് അവർക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഉണ്ട് എൻഐഎച്ച് ഉണ്ട് അതിനാൽഅടിസ്ഥാന ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും ധനസഹായം നൽകുന്നത് സർക്കാരാണ് നാഷണൽ സയൻസ് ഫൌണ്ടേഷൻ എന്ന എൻഎസ്എഫ് സർവകലാശാലകളിലെയും കോളേജുകെളിലെയും അടിസ്ഥാന ഗവേഷണത്തെ പിന്തുണയ്ക്കുന്നു ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനും ധനസഹായം നൽകുന്ന ഈ സംസ്കാരം യു എസിന്റെ ശാസ്ത്ര നയത്തിന്റെ ഭാഗമാണ് ലോകമഹായുദ്ധത്തിനു തൊട്ടുപിന്നാലെ അടിസ്ഥാന ഗവേഷണം പുതിയ സാങ്കേതികവിദ്യകൾ സൃഷ്ടിക്കുന്നതിലേക്കും പുതിയ സാങ്കേതികവിദ്യകൾ പുതിയ വ്യവസായങ്ങൾ സൃഷ്ടിക്കപെടുന്നതിലേക്കും പുതിയ വ്യവസായങ്ങൾ പുതിയ ഉദ്യോഗമേഖലകൾ തുറക്കപെടുന്നതിലേക്കും നയിക്കും അതുവഴി സമ്പത്ത് സൃഷ്ടിക്കപ്പെടുന്നു അതിലൂടെ ക്രമേണ യു എസ് ഒരു മഹാശക്തിയായി മാറുകയോ ആ പദവി നിലനിർത്തുകയോ ചെയ്യുന്നു അമേരിക്കയുടെ നിലവിലെ നില എങ്ങെനയാണ് അടിസ്ഥാന ഗവേഷണം പോലെ ലളിതമായ ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഇന്ത്യയിലെ പേറ്റന്റ് നിയമം നോക്കുകയാണെങ്കിൽ പുതിയ വ്യവസായം സൃഷ്ടിക്കുന്നതിന് പുതിയ വ്യവസായ പേറ്റന്റ് നൽകേണ്ടതാണെന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും പുതിയ വ്യവസായങ്ങൾ സാങ്കേതികവിദ്യയുടെ കൈമാറ്റം ആയിരിക്കണം ഇന്ത്യൻ പേറ്റന്റ്സ് നിയമവും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാം പക്ഷേ ഇത് സാധ്യമാക്കാൻ പ്രത്യേകിച്ചും ഒരു സർവകലാശാല അന്തരീക്ഷത്തിൽ സാധ്യമാകാൻ ശാസ്ത്രഗവേഷണത്തിന് ധനസഹായം ആവശ്യമാണ് ഈ ധനസഹായം പ്രധാനമായും സർക്കാരിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് പൊതുധനസഹായത്തോടെ നടക്കുന്ന ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ ധനസഹായം നൽകുന്നത് സർക്കാർ ആണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ഐപിആറിന്റെ ഉടമസ്ഥാവകാശവും 1950 കളിൽ ഒരു ആശങ്കയായിരുന്നു ഫെഡറൽ ധനസഹായത്തോടെ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്ന് ലഭിച്ച പേറ്റന്റുകൾ സ്വന്തമാക്കിയിരുന്നത് സർക്കാരായിരുന്നു പക്ഷെ 1970 കളിലും 80 കളിലും ഗവേഷണം വാണിജ്യവത്കരിക്കപ്പെടുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടായി ഇത് പ്രധാനമായും ബെയ് ഡോൾ ആക്റ്റ് എന്ന നിയമ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഇത് യുണൈറ്റഡ് സ്റ്റേസിൽ ടെക് ട്രാൻസ്ഫർ ഓഫീസുകൾ സ്ഥാപിക്കുന്ന ഒരു രീതി അനിവാര്യമാക്കി ഈ ആക്ട് ആണ് അത് അനിവാര്യമാക്കിയത് യു ജി സി എ ഐ സി ടി ഇ പോലുള്ള വിവിധ റെഗുലേറ്ററി ഏജൻസികളും എൻ ഐ ആർഎഫ് പോലുള്ള ചില റാങ്കിംഗ് ചട്ടക്കൂടുകളും ഇപ്പോൾ സ്ഥാപനങ്ങൾക്ക് ഐപി കേന്ദ്രങ്ങൾ വേണമെന്നും അല്ലെങ്കിൽ പേറ്റൻറുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നു ഇത് വ്യത്യസ്ത റെഗുലേറ്റർമാരാണ് ചെയ്യുന്നതെങ്കിലും യുഎസിൽ ഇത് ഒരു നിയമപ്രകാരമാണ് നടത്തിയത് കഴിഞ്ഞ ദശകത്തിൽ സമാനമായ ഒരു നിയമം പാസാക്കാനുള്ള ശ്രമമുണ്ടായിരുന്നുവെങ്കിലും അത് ഇന്ത്യയിൽ നടപ്പായില്ല ടെക് ട്രാൻസ്ഫർ ഓഫീസുകൾ മുമ്പ് ചെയ്യാത്ത രണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്തു ആദ്യം ബേ ഡോൾ ആക്റ്റ് വ്യവസായത്തിനുള്ള കണ്ടുപിടുത്തങ്ങൾക് സർവ്വകലാശാലകൾ ലൈസൻസ് നൽകണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനാൽ ഇത് സർവ്വകലാശാലകളുടെ ഗവേഷണം അവതരിപ്പിക്കുന്നതിനോ വ്യവസായത്തിലേക്ക് തള്ളിവിടുന്നതിനോ ഉള്ള ഒരു മാർഗമായിരുന്നു അതിലൂടെ വ്യസായമേഖലയ്ക്ക് അതിനെ വികസിപ്പിക്കാനും വാണിജ്യവത്ക്കരിക്കാനും കഴിയും അതായത് സർവകലാശാലകളും വ്യവസായങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ബന്ധം ഈ ആക്ടിലൂടെ ശക്തിപ്പെട്ടു എന്നതാണ് ഒന്നാമത്തെ സംഭാവന ഈ ആക്ട് ലൈസെൻസിലൂടെയുള്ള വരുമാനം കണ്ടുപിടുത്തക്കാരുമായി പങ്കിടുന്നതിനുള്ള വ്യവസ്ഥ ചെയ്യുന്നു എന്നതാണ് രണ്ടാമത്തെ സംഭാവന അതിനാൽ ഇവയ്ക്ക് ലൈസൻസ് നൽകുന്നതിലൂടെ ലഭിക്കുന്ന റോയൽറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഈ വരുമാനം സർവ്വകലാശാലകൾ പങ്കുവെക്കണമായിരുന്നു ഇത് ആ ഗവേഷണ പ്രോജെക്ടുകളിൽ പ്രവർത്തിച്ച പ്രൊഫസർമാരുമായും ഗവേഷകരുമായും പങ്കുവെക്കണമായിരുന്നു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇത് സർവകലാശാലക്ക് കണ്ടുപിടുത്തങ്ങൾ ലൈസൻസ് ചെയ്യാനും ആ സാങ്കേതിക വിദ്യയുടെ സൃഷ്ടിക്ക് സഹായകമായ വ്യക്തികളുമായി പങ്കിടാനും ഇടയാക്കുന്ന ഒരു ആക്ട് എന്നപോലെ ലളിതമാണ് ഇതിന് അവർക്ക് ഒരു ഐ പി കേന്ദ്രം ഉണ്ടായിരിക്കണം എന്ന് ആവശ്യപെടുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഐപി സെന്ററിനെ ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസ് എന്ന് വിളിക്കുന്നു അതിനാൽ ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസ് അല്ലെങ്കിൽ ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസുകൾ ഉള്ള ഒരു രീതി ബേ ഡോൾ ആക്റ്റ് പ്രകാരം വന്ന ഒരു നിയമപരമായ ആവശ്യകതയാണ് ഇത് സർവകലാശാലകൾക്ക് ടെക് ട്രാൻസ്ഫർ ഓഫീസുകൾ ഒരു ആവശ്യകതയാക്കി അതിനാൽ ബൌദ്ധിക സ്വത്തവകാശ നയം ഈ സർവ്വകലാശാലകളുടെ മിഷൻ സ്റ്റേറ്റ്മെന്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില സർവ്വകലാശാലകൾ അവരുടെ സ്വന്തം ബൌദ്ധിക സ്വത്തവകാശ നയം രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് സർവകലാശാലകൾ സംരംഭകരായി പ്രവർത്തിക്കുന്നുവെന്നോ സംരംഭകധർമ്മം എന്ന ഒരു പുതിയ ധർമ്മം നിവർത്തിക്കുന്നുവെന്നോ ആണ് പക്ഷേ നമ്മൾ ഒരു പടി പിന്നോട്ട് പോയാൽ ശാസ്ത്രീയ ഗവേഷണത്തിലെ ഒരു പ്രധാന ധനസഹായം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഗവണ്മെന്റ് ആണെന്ന വസ്തുത നിങ്ങൾക്ക് കാണാൻ കഴിയും ഭരണകൂടം തന്നെ ചിലപ്പോൾ സംരഭകധർമ്മം നിറവേറ്റുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ എപ്രകാരമാണ് ഗവേഷണത്തിന് ധനസഹായം നൽകുന്നതെന്ന് മനസിലാക്കാൻ പ്രയാസമില്ല ഗവേഷണത്തെ വ്യവസായവുമായി ബന്ധപ്പെടുത്തുന്ന സംരംഭക സംസ്കാരത്തിലൂടെ പ്രൊഫസർമാരും ഗവേഷകരും അടങ്ങുന്ന കണ്ടുപിടുത്തക്കാരുമായി റോയൽറ്റി വഴി ലഭിക്കുന്ന വരുമാനം പങ്കിടുന്നത്തിലൂടെ വ്യവസായം വാണിജ്യവത്കരിക്കപ്പെടുന്നു ഇതിന് ഒരു സംരംഭകനായി ഒരു ഭരണകൂടം പ്രവർത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭരണകൂടം തന്നെ അത്തരമൊരു സംരംഭക സംസ്കാരത്തിന് കളമൊരുക്കുന്നു സംരംഭക ഭരണകൂടം എന്ന ഒരാശയമുണ്ട് അതിനെക്കുറിച്ച് ചില ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിലെ University College London അദ്ധ്യയനവിഭാഗത്തിലെ പ്രൊഫസർ മരിയാന മസുകാറ്റോസ് എഴുതിയ ഓന്റെപ്രീന്യൂറിയൽ സ്റ്റേറ്റ് ഡീബങിങ് പബ്ലിക് വേർസ്സ് പ്രൈവറ്റ് സെക്ടർ മിത്ത് Entrepreneurial State Debunking Public versus Private Sector Myth എന്ന പുസ്തകം അതിലൊന്നാണ് വാല്യൂ ഓഫ് എവരിതിങ് മേക്കിങ് ആൻഡ് ടേക്കിങ് ഇൻ ദി ഗ്ലോബൽ ഇക്കോണമി Value of Everything Making and Taking in the Global Economy" എന്ന പേരിൽ മറ്റൊരു പുസ്തകവും അവർ അടുത്തിടെ എഴുതിയിട്ടുണ്ട് ഷോർട്ട്ലിസ്റ്റ് ചെയ്തിരിക്കുന്നതും കഴിഞ്ഞ വർഷം വിവിധ അവാർഡുകൾ നേടിയിട്ടുള്ളതുമായ കൃതിയാണത് അപ്പോൾ പ്രൊഫസർ മരിയാന മസുകാറ്റോസിന്റെ ഗവേഷണത്തിന്റെ വിഷയം ഭരണകൂടം എന്നാൽ സംരംഭക ഭരണകൂടമാണെന്നും എന്നാൽ ഇത് തിരിച്ചറിയാതെയാണ് ഭരണകൂടം പ്രധാനമായും ഈ ധർമ്മം നിറവേറ്റുന്നത് എന്നുമാണ് അതിനാൽ ഓരോ തവണയും ഭരണകൂടം അതിനു നഷ്ടം വരുത്തിക്കുന്നതോ ലാഭം നേടികൊടുക്കുന്നതോ ആയ വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ സംരംഭക ധർമ്മത്തിൽ പ്രവേശിക്കുകയോ ആ ധർമ്മം നിറവേറ്റുകെയോ ചെയ്യുകയാണ് ശാസ്ത്ര ഗവേഷണത്തിനായി ഭരണകൂടത്തിന് ഒരു പ്രതേക ബജറ്റ് ഉണ്ട് ആ ബജറ്റ് വിവിധ സർവകലാശാലകൾക്ക് നൽകി അവരോട് ഗവേഷണം നടത്താൻ ആവശ്യപെടുമ്പോഴും അത് പേറ്റന്റ് ചെയ്യുന്നതിന് പ്രേരണ നൽകുമ്പോഴും ഭരണകൂടം യഥാർത്ഥത്തിൽ ഒരു സംരംഭകനായി മാറുകയാണ് ഗവേഷണം നടത്തുന്നതിന് ഭരണകൂടം അവർക്ക് ഫണ്ട് നൽകുന്നു ഗവേഷണഫലം വാണിജ്യവത്ക്കരിക്കാനും വ്യവസായ മേഖലയുമായി പങ്കുവയ്ക്കാനും സർവകലാശാലകളെ അനുവദിക്കുന്നു അതിനാൽ സർവ്വകലാശാലയുടെ സംരംഭക പ്രവർത്തനം എന്നത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ സംരംഭക പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതിനാൽ സംരംഭക ഭരണകൂടം അതിന്റെ സംരംഭക പ്രവർത്തനത്തിന്റെ ഭാഗമായി ദീർഘകാല വളർച്ചാ തന്ത്രങ്ങൾ സൃഷ്ടിക്കണം അത് പരാജയങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം അതിനാൽ ഇതിനായി നൽകുന്ന ഫണ്ടിലൂടെ നടത്തപെടുന്ന ഗവേഷണം എല്ലാ സാഹചര്യങ്ങളിലും വാണിജ്യപരമായി ലാഭകരമായ സാങ്കേതികവിദ്യയിൽ കലാശിക്കാറില്ല എന്നത് ഭരണകൂടം മനസിലാക്കുന്നു അവിടെയാണ് അപകടസാധ്യത നിലനിൽക്കുന്നത് അതിനാൽ ഭരണകൂടം ഫണ്ടിംഗ് ചെയ്യുമ്പോഴും അതിൽ നിന്ന് തിരികെ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന അപകടസാധ്യത ഏറ്റെടുക്കുന്നു എന്നാൽ അതേസമയം തന്നെ ഭരണകൂടം പരാജയം ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം സജ്ജമാക്കുന്നു അതിനാൽ ഭരണകൂടം നിക്ഷേപിക്കുകയും റിസ്ക് എടുക്കുകയും ചെയ്യുമ്പോൾ അർഹിക്കുന്ന ലാഭം തിരികെ സ്വീകരിക്കാനും അവയ്ക്ക് കഴിയണം എന്ന് പ്രൊഫസർ മരിയാന വാദിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഭരണകൂടം ഐ ഫോൺ നിർമിക്കാൻ വികസിപ്പിച്ച സാങ്കേതിക വിദ്യയുടെ ഉദാഹരണം അവർ പറയുന്നു ടച്ച് സ്ക്രീൻ മുതൽ ഇന്റർനെറ്റിന്റെ വിവിധ ഉപയോഗങ്ങൾ വരെ ആപ്പിൾ വികസിപ്പിച്ചു അധിക ലാഭം ഉണ്ടാക്കി ലോകോത്തര നിലവാരമുള്ള മികച്ച നിർമ്മിതിയായി ആപ്പിളിന്റെ സാങ്കേതികവിദ്യ അംഗീകരിക്കപ്പെട്ടെങ്കിലും ഭരണകൂടത്തിന് തിരികെ കാര്യമായി ഒന്നും ലഭിച്ചില്ല അതിനാൽ കുറച്ച് ലാഭമുണ്ടായിരിക്കണം എന്ന് അവർ വാദിക്കുന്നു സർവ്വകലാശാലകൾക്കും ഇത് നോക്കാവുന്നതാണ് അപ്പോൾ ഗവേഷണം വാണിജ്യവത്കരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതത്തിന് എന്താണ് സംഭവിക്കുന്നത് അതിൽ ഒരു വിഹിതം സംസ്ഥാനത്തിലേക്കു തിരികെ പോകുന്നുണ്ടോ അതോ അത് കൂടുതൽ ഗവേഷണത്തിനായി സർവ്വകലാശാലയിലേക്കു തന്നെ തിരികെ എത്തുകയാണോ അതോ അത് സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്ന ഗവേഷകരും പ്രൊഫസർമാരുമായി പങ്കുവെക്കപ്പെടുകയാണോ എന്ന് മനസിലാക്കേണ്ടതുണ്ട് ഇത് ഒരു ഐ പി നയം നിർദേശിക്കുന്നു രണ്ടാമത് അപ്രകാരം ചെയ്യുന്നത് പരാജയപ്പെട്ടാൽ ഉണ്ടാകുന്ന നഷ്ടം നികത്തുകയും ചെയ്യുന്നു അതിനാൽ വിജയകരമായ എല്ലാ പ്രോജക്റ്റുകളിലും അല്ലെങ്കിൽ വിജയകരമായ എല്ലാ ഗവേഷണ വാണിജ്യവത്കരണത്തിലും ഭരണകൂടത്തിന് എന്തെങ്കിലും സംഭാവന തിരികെ ലഭിക്കണം എന്നത് ആവശ്യമാണ് അങ്ങെനെയായാൽ ഭരണകൂടത്തിന്അതിന്റെ ചില ഉദ്യമങ്ങൾ പരാജയപ്പെട്ടാൽ ഉണ്ടായേക്കാവുന്ന നഷ്ടം നികത്താൻ കഴിയും അത് വിജയകരമായ സാങ്കേതികവിദ്യ അത്ര കണ്ട് വിജയകരമാകാത്ത സാങ്കേതിക വിദ്യയെ സബ്സിഡൈസ് ചെയ്യുന്നത് പോലെയാണ് ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊരു വ്യക്തമായ റിസ്ക് റിവാർഡ് ബന്ധമാണെന്ന് മനസിലാക്കാൻ കഴിയും അതിനാൽ ഒരു ഭരണകൂടം അതിന്റെ സംരംഭക ധർമ്മം നിവർത്തിക്കുമ്പോൾ വരുമാനം നേടുന്നതിന് പുറമെ അത് ജനജീവിതം മികച്ചതാക്കുന്നതിനാൽ പൊതുജന പിന്തുണയും ലഭിക്കുന്നു ഓരോ തവണയും സർവകലാശാലാ സാങ്കേതികവിദ്യ വാണിജ്യവത്ക്കരിക്കപെട്ട് വിപണിയിൽ എത്തുമ്പോൾ അത് വിപണിയിലേക്ക് ഒരു ശുഭസൂചന നൽകുകയും അതിലൂടെ പൊതുജനങ്ങിൽ നിന്ന് അതിന് പിന്തുണ ലഭിക്കുകയൂം ചെയ്യുന്നു പരമ്പരാഗതമായി ഭരണകൂടത്തെ ഒരു മിനിമൽ സ്റ്റേറ്റ് ആയിട്ടാണ് കാണുന്നത് ഭരണകൂടം വിപണിയിൽ ഇടപെടാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാം വിപണി സ്വയം നിയന്ത്രിക്കണം കമ്പോളത്തിൽ പരാജയം നേരിടുമ്പോൾ അറ്റകൈയ്ക്ക് മാത്രമേ ഭരണകൂടം ഇടപെടാറുള്ളു ഭരണകൂടത്തിന് അടിസ്ഥാന ഗവേഷണത്തിന് ധനസഹായം നൽകുന്നതിന് പുറമെ സംരംഭക സജ്ജീകരണത്തിന്റെ സ്രഷ്ടാക്കളുടെ വ്യത്യസ്ത റോളുകൾ നിയന്ത്രിക്കാനും കഴിയും ഉദാഹരണത്തിന് എസ് എം ഇ കളിലോ സ്റ്റാർട്ടപ്പുകളിലോ ഉള്ള നയവും വെഞ്ച്വർ ക്യാപ്പിറ്റലിസത്തിലുള്ള അതിന്റെ നയങ്ങളും അല്ലെങ്കിൽ സർവകലാശാലകളിലും അതിന്റെ സംരംഭക പ്രവർത്തനത്തിലും ഭരണകൂടത്തിനുള്ള നയങ്ങളും ഇവയ്ക്കെല്ലാം തന്നെ ഒരു രാജ്യത്ത് പുതിയ മാറ്റം എങ്ങനെ സംഭവിക്കുന്നു എന്നതിൽ ഒരു പങ്കു വഹിക്കാൻ കഴിയും അപ്രകാരം ഇത് വീണ്ടും സംസ്ഥാനത്തിന്റെ സംരംഭക പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാകുന്നു ഇപ്രകാരം സർക്കാർ നിക്ഷേപം യുഎസിൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതിനെ ശക്തിപ്പെടുത്തി എപ്രകാരമാണ് അടിസ്ഥാന ഗവേഷണത്തിൽ നിക്ഷേപിക്കുന്നത് യൂ എസ് ഒരു സൂപ്പർ പവർ ആകുന്നതിനും ആ പദവി നിലനിർത്തുന്നതിനും ഇടയാക്കുന്നത് എന്ന് നമ്മൾ മനസിലാക്കി സംരഭകപ്രവർത്തനത്തിൽ നവീകരണത്തിലൂടെയുള്ള വളർച്ചയിലായിരിക്കണം ഭരണകൂടത്തിന്റെ ശ്രദ്ധ അതിനാൽ ഭരണകൂടം അടിസ്ഥാന ഗവേഷണത്തിനായി നിക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ ഭരണകൂടം വിദ്യാഭ്യാസത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ സാങ്കേതിക വളർച്ചയിലേക്കോ നവീകരണത്തിലേക്കോ ഉള്ള ഒരു നിക്ഷേപമാണ് നടത്തുന്നത് സ്വകാര്യമേഖലയിൽ നിന്ന് വ്യത്യസ്തമായ പങ്കാണ് പൊതുമേഖലയിൽ ഭരണകൂടത്തിനുള്ളതെന്നും അതിലൂടെ മനസിലാക്കുന്നു പൊതുമേഖല സംരംഭകത്വത്തെയും പുതുമയെയും സബ്സിഡികളിലൂടെയും നികുതി കുറയ്ക്കുന്നതിലൂടെയും സാങ്കേതിക മാനദണ്ഡങ്ങൾ വയ്ക്കുന്നതിലൂടെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ അതോടൊപ്പം ഗവേഷണത്തിന് ധനസഹായം നൽകുന്നതിലൂടെ പൊതുമേഖലയിലെ ഗവേഷണത്തെ പ്രേരിപ്പിക്കുന്നു എന്നാൽ സ്വകാര്യ മേഖല നവീകരണപ്രക്രിയയുടെ അനിശ്ചിതത്വഘട്ടത്തിൽ ആയിരിക്കുമ്പോഴും റിസ്ക് എടുക്കാൻ തയാറാകുന്നത് കൊണ്ടും സാങ്കേതികവിദ്യയിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടും അവരെ സംരഭകത്വത്തിന്റെ നേതൃത്വനിരയിൽ പരിഗണിക്കുന്നു അതിനാൽ ഈ ധർമ്മംഅതായത് വിപണിയിലെ സംരഭകധർമ്മം സ്വകാര്യമേഖല കേസ് അടിസ്ഥാനത്തിൽ അപകടസാദ്ധ്യത വിലയിരുത്തി നടത്തുന്ന ഒന്നാണ് എന്നാൽ സ്വകാര്യമേഖല എത്തിനോക്കാൻ ആഗ്രഹിക്കാത്ത വ്യവസായങ്ങളും സാങ്കേതികവിദ്യകളും ഉണ്ടാകാം ഇവിടെയാണ് ഭരണകൂടത്തിന്റെ ഇടെപെടൽ നിര്ണായകമാകുന്നത് ഭരണകൂടത്തിന്റെ സംരഭകധർമ്മത്തിലൂടെ പുറത്തുവരുന്ന ഇപ്പോഴത്തെ ഗവേഷണം അടിസ്ഥാനവിദ്യാഭ്യാസത്തിനും അടിസ്ഥാനഗവേഷണത്തിനും കൂടുതൽ ശക്തവും ഗണ്യമായതുമായ നിക്ഷേപം ഇനിയും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് വ്യതമാക്കുന്നു അപ്രകാരം ഒരു നിക്ഷേപം നടത്തിയാൽ മാത്രമേ സർവ്വകലാശാലകൾ ഗവേഷണം നടത്തുകയുള്ളു അപ്രകാരം ഗുണനിലവാരമുള്ള ഗവേഷണത്തിൽ നിന്ന് മാത്രമേ പുതിയ അറിവ് പുറത്തുവരികയുള്ളു ആ അറിവ് ബൌദ്ധിക സ്വത്തവകാശ നിയമപ്രകാരം പരിരക്ഷിക്കപെടും അത് കൊണ്ട് ഒരു ഐ പി സെന്റർ സ്ഥാപിക്കുന്നതിനും സർവകലാശാല ഒരു സംരംഭക സർവകലാശാല ആകുന്നതിനുമുള്ള ഒരു മുൻ വ്യവസ്ഥ ഭരണകൂടം അതിന്റെ സംരംഭകധർമ്മം നിറവേറ്റണം എന്നതും വിവിധ കാര്യങ്ങൾ സുഗമമാക്കാൻ പ്രയത്നിക്കണം എന്നതുമാണ് യു എസ് സംരംഭക ഭരണകൂടത്തിന് മികച്ച ഉദാഹരണമാണ് അവർ വിവിധതരം സാങ്കേതിക വിദ്യകൾ ഉയർന്നുവരാനും വ്യാപിക്കാനും സഹായകമാകുന്ന ഇടപെടലുകൾ നടത്തുന്നു അതിനാൽ അവർ ഈ ആക്ട് കൊണ്ടുവന്നതിലൂടെ സർവകലാശാല വികസിപ്പിക്കുന്ന സാങ്കേതികവിദ്യ വ്യാപിപ്പിക്കാനും വ്യവസായമേഖല അത് ഏറ്റെടുക്കാനും അനുവാദം കൊടുത്തു അതുകൊണ്ട് ഒരു സർവകലാശാല ഗവേഷണത്തിൽ ഏർപ്പെടുമ്പോൾ ആ ഗവേഷണങ്ങളും അതിന്റെ ഫലങ്ങളും ഐ പി യിലൂടെ സംരക്ഷിക്കണെമെങ്കിൽ അതിന് ഒരു ഐ പി കേന്ദ്രം ആവശ്യമാണ് വ്യസായമേഖലയുമായി പങ്കാളിത്തത്തിലാകുന്നതിലൂടെ ഐ പി കേന്ദ്രം ഒരു കേന്ദ്ര ബിന്ദുവായി തീരുന്നു അങ്ങനെ സർവകലാശാലയ്ക്ക് വ്യവസായവുമായി പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയും ഇത് രണ്ട് തരത്തിൽ പ്രവർത്തിക്കുന്നു ഒന്ന് അത് സർവ്വകലാശാലയെ ആകർഷിക്കുന്നു പുൾ മെക്കാനിസം എന്ന് വിളിക്കാവുന്ന സർവകലാശാലയുമായി ചേർന്നുള്ള ഒരു സംയുക്ത സംരഭം അല്ലെങ്കിൽ സർവകലാശാലയുമായി ചേർന്നുള്ള പ്രവർത്തനം എന്ന രീതിയിൽ അത് സംഭവിക്കുന്നു അത് പുഷ് മെക്കാനിസം വഴിയും പ്രവർത്തിക്കാം അവിടെ സർവകലാശാല വിവിധതരം വ്യവസായങ്ങളെ സമീപിക്കുകയും അവർ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായോ എന്ന് അന്വേഷിച്ചറിയുകയും ചെയ്യുന്നു അതായത് പേറ്റന്റ് ഫയൽ ചെയ്യുന്നതും സർവകലാശാല വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയെ കുറിച്ച് വ്യവസായമേഖലയെ അറിയിക്കുകയും ചെയ്യുന്നതും പുഷ് മെക്കാനിസത്തിന് ഉദാഹരണങ്ങളാണ് സർവകലാശാലയ്ക്ക് മികവിന്റെ കേന്ദ്രം ഉള്ളപ്പോഴോ ഒരു പ്രതേക സാങ്കേതികവിദ്യയിൽ നിപുണത കാണിക്കുകയോ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും വ്യവസായ മേഖലയെ സർവകലാശാലയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് ആകർഷിക്കുന്നു ഇതാണ് പുൾ മെക്കാനിസം ഇത് ഐപി സെന്റർ ചിത്രത്തിലേക്ക് വരുന്നതിന് മുൻപ് കൺസൾട്ടൻസി വഴിയാണ് നടന്നിരുന്നത് ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകളിലും ഉന്നതസാങ്കേതികവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമുക്ക് കൺസൾട്ടൻസി കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു സർവകലാശാലയിലൂടെ പുറത്തുവരുന്ന ഗവേഷണവും സാങ്കേതികവിദ്യയും പ്രദർശിപ്പിക്കുന്നതിലൂടെയും ഇത് സംഭവിക്കാം ഐപി കേന്ദ്രത്തിന്റെ പങ്ക് പ്രധാനമായും സർവകലാശാലകളിലെ പഠന ഗവേഷണ വിഭാഗം ഐ പി എന്ന് വിളിക്കുന്ന ബൌദ്ധിക സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഐ പി കൈകാര്യം ചെയ്യുന്നതിൽ ഒന്നിലധികം ധർമ്മങ്ങൾ ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് നിങ്ങക്ക് ഐ പി തിരിച്ചറിയണം എന്നുണ്ടോ അത് ചിലപ്പോൾ ഗവേഷണ പ്രബന്ധനങ്ങളിലെ ബൌദ്ധിക സ്വത്താകാം അല്ലെങ്കിൽ അത് ഒരു സർവകലാശാലയിലെ പ്രോജക്ട് ആകാം പ്രസിദ്ധീകരിക്കപ്പെടുന്ന പേപ്പറുകളിലും ഐ പി സാദ്ധ്യതയാകാം ഒരു ഐ പി കേന്ദ്രമാണ് അത് തിരിച്ചറിയേണ്ടത് ഐ പി കേന്ദ്രം അത് സ്ക്രീൻ ചെയ്യുന്നു അതിൽ എന്ത് ബൌദ്ധിക സ്വത്താണുള്ളതെന്നും അതിന് എന്ത് സംരക്ഷണമാണ് ആവശ്യമായിരിക്കുന്നത് അത് സംരക്ഷിക്കപ്പേടേണ്ടതാണോ അതിനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നും ഒക്കെ മനസിലാക്കുന്നു സ്ക്രീനിങ്ങിന് ശേഷം ഐ പി സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതിനാൽ മിക്ക ബൌദ്ധിക സ്വത്തവകാശങ്ങൾക്കും രജിസ്ട്രേഷൻ ആവശ്യമാണ് ഐ പി കേന്ദ്രം ഒരു മൂന്നാം കക്ഷി സേവനദാതാവുമായി ബന്ധപെട്ട് രജിസ്ട്രേഷൻ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഐ പി രജിസ്റ്റർ ചെയ്യപ്പെട്ടുകഴിഞ്ഞാൽ ഐ പി കേന്ദ്രം അതിനെ സംരക്ഷിക്കണം ഐ പി പുതുക്കേണ്ട സമയം അതിന്റെ നടപ്പാക്കലുമായോ ലൈസെൻസിങ്ങുമായോ സാങ്കേതികവിദ്യാകൈമാറ്റവുമായോ ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാകാം സ്റ്റാർട്ടപ്പുകളുടെ ഇൻക്യൂബേഷൻ പ്രക്രിയയും സർവ്വകലാശാലയുടെ സംരംഭക ധർമത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ധർമ്മമാണ് എപ്രകാരമാണ് ഒരു ഐ പി കേന്ദ്രം സ്ഥാപിക്കുന്നതിലൂടെ സർവകലാശാല വ്യവസായ മേഖലയുമായി ഇടപഴകുന്നത് എന്ന് നമ്മൾ കണ്ടു ഒരു കണ്ടുപിടുത്തത്തിന് ലൈസൻസ് നൽകേണ്ട കേസാണെങ്കിൽ അത് ഐ പി കേന്ദ്രത്തിലൂടെ ചെയ്യപ്പെടുന്നു ഒരു കണ്ടുപിടുത്തം വ്യവസായമേഖലയുമായി ലൈസൻസ് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ സ്വന്തമായി കമ്പനി സജ്ജീകരിച്ച് അത് വിപണിയിലെത്തിക്കാൻ ഗവേഷകരുടെയും പ്രൊഫസർമാരുടെയും ഒരു സംഘം ഉണ്ടാകും വിവിധ സാങ്കേതികവിദ്യയിലൂടെ സ്റ്റാർട്ട് അപ്പസ് ഇൻക്യൂബേറ്റ് ചെയ്യുന്നത് കൂടുതൽ അർത്ഥവത്താക്കാൻ കഴിയും പ്രതേകിച്ച് ബയോടെക്നോളജിയിൽ ബയോടെക്നോളജിയിലെ മാതൃക നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾ പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതും പിന്നീട് വലിയ സ്ഥാപനങ്ങൾ അവ സ്വന്തമാക്കി ഉൽപ്പന്നങ്ങളെ വിപണിയിൽ എത്തിക്കുന്നതും കാണാൻ കഴിയും അതിനാൽ വലിയ നിക്ഷേപം വരുന്നിടത്താണ് വലിപ്പമുള്ള ഔഷധ നിർമ്മാണ സ്ഥാപനങ്ങൾ ചെറിയ കമ്പനികളെ ഏറ്റെടുക്കുകയോ ലയിപ്പിക്കുകയോ സ്വന്തമാക്കുകയോ ചെയ്യുന്നത് സാങ്കേതികവിദ്യയുടെ ചില മേഖലകൾ വ്യവസായമേഖലയ്ക്ക് സാങ്കേതികവിദ്യ ലൈസൻസ് ചെയ്യുന്നതിനേക്കാൾ സ്റ്റാർട്ടപ്പുകളെ ഇൻക്യൂബേറ്റ് ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതായി കാണാം അതിനായി ചില സർവകലാശാലകളിൽ ഇ സെല്ലുകൾ ഉണ്ട് സംരംഭക പ്രവർത്തനം തുടങ്ങാൻ പറ്റിയ ഇടമാണ് ഇവിടം ഇവിടെ ബിസ്നസ്സ്സംബന്ധിയായ വശങ്ങളെക്കുറിച്ചും നിയമപരമായ വശങ്ങളെ ക്കുറിച്ചും കൌൺസില്ലിങ് നൽകപ്പെടുന്നു കാരണം ഒരു സ്റ്റാർട്ട് അപ്പ് സജ്ജീകരിക്കുന്നതിന് വ്യാപാരവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും നിയമപരവും ആജ്ഞാനുവർത്തിത്വവും നിയന്ത്രങ്ങൾ സംബന്ധിച്ചുള്ളതുമായ ഉപദേശങ്ങളും ആവശ്യമാണ് അതിനാൽ ഒരു സർവകലാശാല ഒരു സ്റ്റാർട്ട് അപ്പ് ഇൻകുബേറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ സർവകലാശാലയ്ക്ക് അതിന്റെ ഐ പി സ്വന്തമാക്കാം അല്ലെങ്കിൽ സ്റ്റാർട്ട് അപ്പിന്റെ ഇക്വിറ്റി ഓഹരികൾ സ്വന്തമാക്കാം വലിയ സർവകലാശാലകളിൽ നിങ്ങൾക്ക് ഇൻക്യൂബേഷൻ സെല്ലുകളോ ഗവേഷണപാർക്കുകളോ ആകാം മദ്രാസിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ Indian Institute of Technology Madras കമ്പനികൾ സ്ഥാപിക്കുന്നതിനും അവയെ ഇൻക്യൂബേറ്റ് ചെയ്യുന്നതിനും സഹായകമാകുന്ന ഗവേഷണപാർക്കാണുള്ളത്